ഹലോ കഴിഞ്ഞ 6 ആഴ്ചയായി ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും സ്വാഗതം

ആറാമത്തെ ആഴ്ചയിലെ മൊഡ്യൂൾ നമ്പർ 1 ആരംഭിച്ച ആറാമത്തെ ആഴ്ചയാണിത് ഇത് 31 ാമത്തെ ആഴ്ചയാണ് സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ മൂക്ക് എൻ എൽ കോഴ്സിന്റെ അധ്യായം ടി കാൺപൂരിലെ ഹ്യുമാനിറ്റീസ് വിഭാഗത്തിൽ നിന്നുള്ള രവി ചന്ദ്രൻ ആണ് കഴിഞ്ഞ 6 ആഴ്ചകളായി നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നു ഇപ്പോൾ ആറാം ആഴ്ചയിൽ ഞാൻ ആശയവിനിമയ വൈദഗ്ധ്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു സോഫ്റ്റ് സ്കിൽസിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ചില ആളുകൾ സ്ഥിരമായി ചെയ്യുന്നുവെന്നും ഞാൻ പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നു ആശയവിനിമയ കഴിവുകൾ യഥാർത്ഥത്തിൽ സോഫ്റ്റ് കഴിവുകളെ അർത്ഥമാക്കുന്നുവെന്ന് കരുതുക എന്നാൽ ആശയവിനിമയ വൈദഗ്ധ്യത്തെ സോഫ്റ്റ് സ്കിൽസിന്റെ ഒരു പ്രധാന മേഖലയായി ഞാൻ പരിഗണിക്കും കാരണം സോഫ്റ്റ് സ്കിൽസ് എന്നത് ആശയവിനിമയ വൈദഗ്ധ്യമായി നമ്മൾ സാധാരണയായി കണക്കാക്കുന്നതിലും അപ്പുറമാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഫലപ്രദമായ ആശയവിനിമയത്തിൽ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ സാധാരണയായി നിങ്ങൾ ആശയവിനിമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പക്ഷേ നിങ്ങൾ ഫലപ്രദമായ ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്നതുപോലെ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ചെയ്യുക കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നോക്കാം ഞാൻ ഒരു ദ്രുത ഹൈലൈറ്റ് നൽകും പൂർണ്ണമായും സാങ്കേതികവിദ്യയെയും ആശയവിനിമയത്തെയും കുറിച്ചുള്ള കഴിഞ്ഞ പ്രഭാഷണത്തിലും കഴിഞ്ഞ ആഴ്ചയിലും ഇമെയിൽ മര്യാദകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ അവസാന പ്രഭാഷണം അവസാനിപ്പിച്ചു മോശം എഴുത്ത് ശീലങ്ങൾ ഇല്ലാതാക്കി വിവേകപൂർണ്ണമായ മെയിലുകൾ എഴുതുന്നത് വളരെ പ്രധാനമാണെന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചു അത് ചെയ്യുന്നതിന് നിങ്ങൾ എന്താണ് എഴുതേണ്ടതെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് പോയിന്റുകൾ രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട് നിങ്ങൾ വ്യക്തവും സംക്ഷിപ്തവും ആയിരിക്കണം യോജിച്ചതും സ്പെല്ലിംഗ് വ്യാകരണ പിശകുകൾ എന്നിവ പരിശോധിക്കാൻ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കണം കൂടാതെ ടൈപ്പോഗ്രാഫിക്കൽ പിശകുകളും ഒരുതരം വികാരം നൽകാൻ നിങ്ങൾക്ക് ഇമോട്ടിക്കോണുകൾ ചേർക്കാൻ കഴിയും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ വാക്കുകൾ വികാരഭരിതമാക്കുക നിങ്ങൾ വിരാമചിഹ്നങ്ങളും ഉപയോഗിക്കണം അതിനാൽ ആളുകൾ വാക്യങ്ങളിൽ വേർതിരിക്കുന്ന കാര്യത്തിൽ ആശയം വ്യക്തമായി മനസ്സിലാക്കുന്നു ഒരു വിവരണാത്മക വിഷയ വരി ഉപയോഗിക്കുക കാരണം വിഷയ വരി എല്ലായ്പ്പോഴും ആ തരത്തിലുള്ള വ്യക്തിയെ വെളിപ്പെടുത്തുന്നു നിങ്ങൾ ഒരു വിഷയവും നൽകാതെ ഒരിക്കലും അത് ശൂന്യമായി വിടരുത് നിങ്ങൾ ഒരു ഇമെയിൽ എഴുതുമ്പോഴെല്ലാം ഹ്രസ്വവും കേന്ദ്രീകൃതവുമായ ഇമെയിലുകൾ മാത്രം എഴുതുക നിങ്ങൾ മറുപടി നൽകുമ്പോൾ നിങ്ങൾ മറുപടി നൽകുന്ന വ്യക്തിയെ നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാൾ ഓട്ടോമേറ്റഡ് ഉപയോഗിക്കരുത് മറുപടികളിൽ നിങ്ങൾ ഒരു പുതിയ വിഷയം ഉൾപ്പെടുത്തി സർക്യൂട്ട് തകർക്കുന്നു അതേസമയം നിങ്ങൾ മറുപടി നൽകുമ്പോൾ അശ്രദ്ധമായി എല്ലാവർക്കും മറുപടി നൽകി പലർക്കും അയയ്ക്കരുത് ആളുകൾ ക്രമരഹിതമായി നിരവധി ആളുകൾക്ക് സിസി അയയ്ക്കുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നുവെങ്കിൽ അറിയപ്പെടുന്നതും പൊതുവായതുമായ ചുരുക്കെഴുത്തുകൾ മാത്രം ഉപയോഗിക്കുക ചുരുക്കെഴുത്തുകൾ എന്നാൽ ഒരു ഔപചാരിക ഇമെയിലിൽ ചുരുക്കെഴുത്തുകൾ പോലും ഒഴിവാക്കണമെന്ന് ഞാൻ പറയും അവസാനമായി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്ലോക്ക് ആയതിനാൽ കമ്പ്യൂട്ടർ ക്ലോക്കിൽ ശ്രദ്ധിക്കുക മുൻകാലത്തെ ഒരു സമയത്തെ സൂചിപ്പിക്കുന്നു തുടർന്ന് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആളുകളോട് ആവശ്യപ്പെടുന്നു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രവർത്തനങ്ങൾക്കായി ആളുകളെ ക്ഷണിക്കാൻ അവർ പദ്ധതിയിടുന്നു ആളുകൾ ആശയക്കുഴപ്പത്തിലാകുകയും അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ പുതിയ ആഴ്ചയിലെ പുതിയ പ്രഭാഷണത്തിൽ നിന്ന് ആരംഭിച്ച് ഇത് നോക്കൂ ഞാൻ ഇത് മുഴുവൻ പറഞ്ഞു മൊഡ്യൂൾ ഫലപ്രദമായ ആശയവിനിമയത്തിലായിരിക്കും നാം ഫലപ്രദമായി പഠിക്കേണ്ടത് എന്തുകൊണ്ട് ആശയവിനിമയം എന്തുകൊണ്ട് നമുക്ക് ആശയവിനിമയം നടത്താനും ഫലപ്രദമായ ആശയവിനിമയക്കാരനല്ലാതിരിക്കാനും കഴിയില്ല ഫലപ്രദമായ ആശയവിനിമയക്കാരനെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വം ഫലപ്രദമായ ആശയവിനിമയക്കാരനാണ് എന്നതാണ് ഒരു സ്വാഭാവിക നേതാവായി ഉയർന്നുവരും ഇതിനർത്ഥം ആശയവിനിമയം നടത്തുന്നവൻ എല്ലായ്പ്പോഴും നയിക്കും ഫലപ്രദമായി ശയവിനിമയം നടത്തുന്ന വ്യക്തി വളരെ ജനപ്രിയനും ശക്തനുമായ നേതാവായിരിക്കും അത്ര വിദ്യാഭ്യാസമില്ലാത്തവരും എന്നാൽ വളരെ ഫലപ്രദരുമായ ആളുകൾ ഉണ്ടെന്ന് പലപ്പോഴും നിങ്ങൾ കണ്ടെത്തും ആശയവിനിമയത്തിൽ അതിനാൽ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളെ പോലും നയിക്കാൻ അവർക്ക് കഴിയും ആശയവിനിമയത്തിൻറെ മറ്റൊരു വശം നോക്കൂ അത് മനുഷ്യപ്രവണതയുമായി ബന്ധപ്പെട്ടതാണ് സാധാരണയായി ആളുകൾ അനുയായികളാകാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതായി ഓർക്കുക നമ്മൾ ശീലങ്ങളെക്കുറിച്ച് സംസാരിച്ച മൊഡ്യൂളിൽ സാധാരണയായി ആളുകൾ അന്തർലീനമായി മടിയന്മാരാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ആർക്കെങ്കിലും വ്യക്തമായി ചിന്തിക്കാൻ കഴിയുമെങ്കിൽ പലരും ചെയ്യുന്നത് സുഖകരമാണ് അവർക്കുവേണ്ടി സംസാരിക്കുകയും അവർക്കുവേണ്ടി ഫലപ്രദമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുക വാസ്തവത്തിൽ ആരെങ്കിലും ചെയ്യുമെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് കരുതുക അവർ വളരെ സന്തുഷ്ടരാണ് പലപ്പോഴും അവർ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു ഒരു ബന്ധു സുഹൃത്ത് അയൽക്കാരൻ അധ്യാപകൻ മധ്യസ്ഥൻ അഭിഭാഷകൻ ഉപദേശകൻ അല്ലെങ്കിൽ ഒരു നേതാവ് ഇപ്പോൾ ഞാൻ ഒരാളെ ഫലപ്രദമായ ആശയവിനിമയക്കാരൻ എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ ആളുകൾ സമീപിക്കുന്നു ആരെങ്കിലും ഫലപ്രദമായ ആശയവിനിമയക്കാരനും ഫലപ്രദവുമാണെന്നതിനാൽ കമ്മ്യൂണിക്കേറ്ററിന് എല്ലായ്പ്പോഴും ആവശ്യക്കാരുണ്ട് സ്വയം ഒരു ഫലപ്രദമായ ആശയവിനിമയക്കാരനാക്കുക നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വശമായ അനിവാര്യമായ ലക്ഷ്യവും വ്യക്തിത്വവും അത് നിങ്ങൾക്ക് ഒരു പ്രധാന ലക്ഷ്യമായി നിലനിർത്തുക ഇപ്പോൾ ഫലപ്രദമായ ആശയവിനിമയത്തിലേക്ക് പോകുന്നതിനുമുമ്പ് ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾ എല്ലാ വിജയകരമായ ആളുകളെയും നോക്കുകയാണെങ്കിൽ അത് ഒരു നേതാവാണോ അതോ മാനേജറാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഒരു അധ്യാപകനോ ഏതെങ്കിലും പ്രൊഫഷണലോ അത് ആശയവിനിമയം നടത്താനുള്ള അവരുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു ആശയവിനിമയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പരാജയങ്ങൾ വളരെ ചെലവേറിയതാണ് പലപ്പോഴും ആശയവിനിമയ പരാജയങ്ങൾ മോശം വികാരത്തിലേക്ക് നയിക്കുന്നു കമ്പനികളിലെ തൊഴിലാളികൾക്കിടയിൽ ഇത് പണിമുടക്കിന് കാരണമാകുകയും ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുകയും ചെയ്യും ആശയവിനിമയം നടത്തിയ സന്ദേശം അവർക്ക് വ്യക്തമാണെങ്കിൽ മാത്രം അവരുടെ ഏറ്റവും മികച്ചത് നൽകുക അതിനാൽ നിങ്ങൾ ഉയർന്ന തലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ചില തൊഴിലാളികളെ അവിടെ കമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്ദേശം ഫലപ്രദമായി അറിയിക്കേണ്ട കീഴുദ്യോഗസ്ഥരാണ് അതിനാൽ അവർക്ക് കഴിയും നിങ്ങളെ മനസിലാക്കുന്നു നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഏറ്റവും മികച്ചത് നൽകാൻ കഴിയൂ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രശസ്തമായ ഉദ്ധരണിയാണ് പറയാൻ എന്തെങ്കിലും ഉള്ളവരും പറയാൻ കഴിയാത്തവരുമായ ആളുകളാൽ ലോകം നിറഞ്ഞിരിക്കുന്നു ഒന്നും പറയാനില്ലാത്തവരും അത് തുടർന്നും പറയുന്നവരുമായ ആളുകൾ അതിനാൽ ഈ കവി റോബർട്ട് ഫ്രോസ്റ്റിന്റെ അഭിപ്രായത്തിൽ ലോകം രണ്ട് ആളുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ശരിക്കും അർത്ഥവത്തായ എന്തെങ്കിലും ഉദ്ദേശ്യപൂർണ്ണമായ എന്തെങ്കിലും ഉള്ള ഒരു കൂട്ടം ആളുകൾ ആശയവിനിമയം നടത്താൻ പക്ഷേ അത് എങ്ങനെ ആശയവിനിമയം ചെയ്യണമെന്ന് അവർക്കും ബാക്കിയുള്ളവർക്കും അറിയില്ല അവർക്ക് ആശയങ്ങളൊന്നുമില്ലെന്ന് പറയാൻ അവർക്ക് ഒന്നുമില്ല പക്ഷേ അവർക്ക് അറിയാമെന്നതിനാൽ അവർ അത് പറയുന്നു അവർ എന്താണ് പറയുന്നതെന്ന് അറിയില്ലെങ്കിലും അത് എങ്ങനെ പറയണം അവർ അത് ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ മറ്റൊരു പ്രശസ്ത നോവലിസ്റ്റ് ഉണ്ട് വളരെ പ്രശസ്തനായ റഷ്യൻ കഥാകൃത്തായ ഫിയോദർ ദസ്തയേവ്സ്കി ഇതിന് സമാനമായ ഒരു കാര്യം പറയുന്നു നോവലിസ്റ്റും അദ്ദേഹത്തിൽ നിന്നുള്ള ഉദ്ധരണി പരിഗണിക്കുക അദ്ദേഹം പറയുന്നത് വളരെയധികം അസന്തുഷ്ടിയുണ്ടെന്ന് അമ്പരപ്പ് കാരണം ലോകവും കാര്യങ്ങൾ പറയാതെ പോയി അതിനാൽ മുമ്പത്തെ ഉദ്ധരണിയിൽ പറയാനുള്ളത് ഉണ്ടെങ്കിലും പറയാത്ത പകുതിയോളം ആളുകളെയാണ് കവി പരാമർശിക്കുന്നത് അത് പറയാൻ കഴിയുകയും ഇപ്പോൾ വളരെ പ്രശസ്തനായ പരിചയസമ്പന്നനായ മാസ്റ്റർ നോവലിസ്റ്റ് അത്രയേ പറയൂ യഥാർത്ഥത്തിൽ ലോകത്തിലേക്ക് വരുന്ന അസന്തുഷ്ടിയും ആശയക്കുഴപ്പവും കാരണമാണ് മനുഷ്യർക്ക് വരുന്നത് പറയാതെ അവശേഷിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിയില്ല അതിനാൽ ഹൃദയത്തിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന നിരവധി കാര്യങ്ങൾ അവയ്ക്ക് ശരിയായി ആവിഷ്കരിക്കാൻ കഴിയില്ല അത് ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇപ്പോൾ ഇത് വളരെ രസകരമായ ഒരു ഘടകമാണ് നിങ്ങളുടെ സന്തോഷം സൂചിപ്പിക്കുന്നതിനാൽ ആശയവിനിമയം നിങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമായി കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ലളിതമായ രീതിയിൽ പറഞ്ഞാൽ ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാകില്ല എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വളരെ സന്തുഷ്ടനും വിജയിക്കും നിങ്ങളുടെ ഹൃദയം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ കഴിയും ആളുകളോട് അത് കൃത്യമായി ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാണ് നിങ്ങളുടെ ഹൃദയം സ്വതന്ത്രമാണ് അത് സമ്മർദ്ദത്തിലല്ല അതിനാൽ വാസ്തവത്തിൽ നോവലിസ്റ്റ് നമ്മൾ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് ആശയവിനിമയം നടത്താൻ അവർക്ക് കഴിയില്ല അതിനാൽ സന്തോഷത്തിൻറെ ഒരു വശം ഫലപ്രദമായി ആശയവിനിമയം നടത്താനും ആശയവിനിമയം നടത്താനുമുള്ള നിങ്ങളുടെ കഴിവ് എല്ലാ ഭാരവും നീക്കിവെക്കുക അതിനോട് പ്രതികരിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ് ഇപ്പോൾ ആശയവിനിമയത്തെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് നോക്കുക ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ലോകം ഒരു ആഗോള ഗ്രാമമായി ചുരുങ്ങിയെന്ന് നാമെല്ലാവരും ആശയവിനിമയം നടത്തുന്നു ഞങ്ങൾ സാങ്കേതികവിദ്യയെക്കുറിച്ചും ആശയവിനിമയത്തെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം ലോകത്ത് എവിടെയും ആർക്കും ഒരു ബട്ടൺ സ്പർശിക്കുന്നത് ആശയവിനിമയമായി മാറിയിരിക്കുന്നു അതിനാൽ എളുപ്പം നിങ്ങൾക്ക് ആരുമായും സംസാരിക്കാൻ കഴിയുന്ന എവിടെയും എപ്പോൾ വേണമെങ്കിലും ഒരു കാറ്റ് പോലെയാണ് പക്ഷേ അത് എല്ലായ്പ്പോഴും ആണോ ഫലപ്രദമായ ഉത്തരം മിക്കപ്പോഴും ഫലപ്രദമല്ലാത്തതും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുമാണ് ഇത് വീണ്ടും ഒരു പ്രശസ്ത നോവലിസ്റ്റ് മാർക്ക് ട്വൈനിൽ നിന്നുള്ളതാണ് അദ്ദേഹം ഇതിനിടയിൽ ഊന്നൽ നൽകുന്നു ആശയവിനിമയവും ഫലപ്രദമായ ആശയവിനിമയവും ഏതാണ്ട് തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറയുന്നു ശരിയായ വാക്കും ശരിയായ വാക്കും ഏതാണ്ട് ശരിയായ വാക്കും ശരിയായ വാക്കും തമ്മിലുള്ള വ്യത്യാസം വാക്ക് ശരിക്കും ഒരു വലിയ കാര്യമാണ് അതിനാൽ ശരിയായ വാക്കും പര്യായപദവുമാണെന്ന് ആളുകൾ കരുതുന്നു അതിനാൽ നിങ്ങൾക്ക് ശരിയായ വാക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഒരു പര്യായപദം ഉപയോഗിക്കാം പക്ഷേ അത് വളരെ വലുതാണെന്ന് അദ്ദേഹം പറയുന്നു അത് ഒരു വലിയ വ്യത്യാസമാണെങ്കിലും അത് മിന്നൽ ബഗും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് അദ്ദേഹം പറയുന്നു മിന്നൽ അതിനാൽ മിന്നൽ ബഗ് എന്നത് പ്രകാശം പുറപ്പെടുവിക്കുന്ന ചെറിയ ബഗ് ആണ് നമ്മിൽ മിക്കവർക്കും ഉണ്ട് കുട്ടിക്കാലത്ത് കീടവുമായി കളിച്ച ഞങ്ങൾ അത് ഒരു കുപ്പിയിൽ ഇടുകയും തുടർന്ന് അകത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇരുട്ടിൽ വെളിച്ചം പുറപ്പെടുവിക്കുന്ന കീടത്തിൽ നാം രസകരമായി കാണുന്നു എന്നാൽ പിന്നീട് മിന്നൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പവർ നിങ്ങൾക്ക് ഫലം കാണാൻ കഴിയും നിങ്ങൾ മിന്നൽ ബഗും മിന്നലും എന്ന് പറയുമ്പോൾ അത് വളരെ വലുതാണ് വ്യത്യാസം മാർക്ക് ട്വെയ്ൻ പറയുന്നത് ഏതാണ്ട് ശരിയായ വാക്കും ശരിയായ വാക്കും തമ്മിലുള്ള കാര്യമാണ് വാക്ക് ഒരു ആശയവിനിമയക്കാരനും ഫലപ്രദമായ ആശയവിനിമയക്കാരനും തമ്മിലുള്ളതാണ് അതിനാൽ ആശയവിനിമയവും ഫലപ്രദമായ ആശയവിനിമയവും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം ഇപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നത് ഏതാണ്ട് ശരിയായ വാക്കും ശരിയായ വാക്കുമാണ് ഒരു ആശയവിനിമയക്കാരനും ഫലപ്രദമായ ആശയവിനിമയക്കാരനും മാത്രമാണെന്നതിന് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കാം എന്നോട് ചോദിക്കുമ്പോൾ സർ ഞാൻ ആളുകളുമായി ആശയവിനിമയം നടത്തുന്ന കാലത്തോളം അത് ശരിക്കും പ്രശ്നമാണോ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയും ഞാൻ പറയുന്നത് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ കേൾക്കാൻ കഴിയും അതിനാൽ ഞാൻ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതുണ്ടോ അത് ശരിക്കും പ്രശ്നമാണോ ഇപ്പോൾ ഉത്തരം നൽകുന്നതിനുപകരം ഞാൻ പോകുന്നു ഒരു വ്യക്തി ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ഒരു ഉദാഹരണം കാണിക്കാൻ പക്ഷേ യഥാർത്ഥത്തിൽ ആശയവിനിമയത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ ഇത് വിപരീത ഫലമുണ്ടാക്കി ഇത് തമ്മിലുള്ളതാണ് ശരിയായ വാക്കും ഏതാണ്ട് ശരിയായ വാക്കും ഇപ്പോൾ ഇത് നോക്കൂ ഈ മനുഷ്യൻ മതിപ്പുളവാക്കാൻ ആഗ്രഹിച്ചു പെൺകുട്ടിയും പിന്നെ അവനും വന്ന് ക്രോമസോമുകളെക്കുറിച്ച് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് അവളോട് പറയാൻ ആഗ്രഹിച്ചു ജീനുകളെക്കുറിച്ചും തുടർന്ന് ഇത് പെൺകുട്ടിയോട് പങ്കിടാൻ അദ്ദേഹം ആഗ്രഹിച്ചു അവനെ ആകർഷിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അവൾ തൻറെ സുഹൃത്താകണമെന്ന് അവനും അവനും ആഗ്രഹിച്ചു അതിനാൽ അവൻ ലൈബ്രറിയിൽ നിന്ന് ഓടി വന്നു പിന്നെ അവൻ അവളോട് പറഞ്ഞു ഹേയ് നിങ്ങളുടെ പിതാവിന്റെ ജീനുകൾക്ക് നിങ്ങൾക്ക് പ്രമേഹം നൽകാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ അതിനാൽ പാരമ്പര്യമായി പ്രമേഹം നൽകാൻ കഴിയുന്ന ക്രോമസോം ജീനുകളായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരാൾ വസ്ത്രമായി ധരിക്കുന്ന ജീനുകളെക്കുറിച്ച് ചിന്തിക്കുന്നതായി പെൺകുട്ടി ചിന്തിച്ചു അതിനാൽ അവൾ മണ്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ ജീനുകൾ ധരിക്കുന്നില്ല അപ്പോൾ എനിക്ക് എങ്ങനെ പ്രമേഹം വരും അതിനാൽ നിങ്ങൾക്ക് കഴിയും ആ വ്യക്തി യഥാർത്ഥത്തിൽ പെൺകുട്ടിയെ ആകർഷിക്കാൻ ആഗ്രഹിച്ച ആശയവിനിമയ വിടവ് മനസിലാക്കുക അവൻ വളരെ മിടുക്കനാണ് പക്ഷേ അത് വിപരീത രീതിയിൽ പ്രവർത്തിച്ചു അവൾ നിഗമനം ചെയ്തു ഈ മനുഷ്യൻ ശരിക്കും വിഡ്ഢിയാണ് കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ ജീനുകൾ ധരിച്ചാൽ ഞാൻ അത് ചെയ്യുമെന്ന് അവൻ ചിന്തിക്കുന്നു പ്രമേഹമുള്ള ഈ മനുഷ്യൻ എത്ര വിഡ്ഢിയാണ് അതിനാൽ ഈ ലളിതമായ ഉദാഹരണം വ്യക്തമാക്കും ഒരു ആശയവിനിമയക്കാരൻ മാത്രമല്ല ഫലപ്രദമായ ഒരു ആശയവിനിമയക്കാരൻ ആയിരിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിവരങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആശയവിനിമയം വളരെ സങ്കീർണ്ണമായ ആശയവിനിമയമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നൽകിയ ചിത്രം നോക്കൂ ഇത് ഒരു ലാബ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സ്കൂൾ മുറി അധ്യാപകൻ പെൺകുട്ടിയോട് വിവരിക്കാൻ ആവശ്യപ്പെട്ട ക്ലാസ് റൂം സാഹചര്യം ഏകദേശം ഒരു പൂവ് ഇപ്പോൾ പെൺകുട്ടി ഈ പൂവിനെ വിവരിക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണെന്ന് നോക്കുക അവർ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസിലാക്കുക ഒരുപക്ഷേ ടീച്ചർ അവളോട് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കാം പൂവിന്റെ കൃത്യമായ പേര് പറയാതെ കൃത്യമായ വാക്ക് പറയാത്ത ആംഗ്യങ്ങളാൽ എന്നാൽ സൂചനകൾ നൽകുന്ന ആംഗ്യങ്ങൾ ഉപയോഗിക്കാൻ അവൾ ശ്രമിക്കുന്നു അതിനാൽ അവർ പേര് എന്ന വാക്ക് കണ്ടെത്തണം അതിനാൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഒരു കപ്പൽ പോലെ വിദൂരമായി ചിന്തിക്കാം ഒരു ഫിഷ് ക്യാറ്റ് വിമാനം പോലെയുള്ള ഒക്ടോപ്പസ് ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല ഒരാൾ പുഞ്ചിരിക്കുകയും മൂലയിൽ ഇരിക്കുകയും അത് ഒരു മരമാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരാളാണ് അതിനാൽ അതല്ലാതെ നിങ്ങൾക്ക് മൃഗങ്ങളും മറ്റ് കാര്യങ്ങളും മാത്രമേ കാണാനാകൂ പൂവിനൊപ്പം അതിനാൽ ആശയവിനിമയം ഒരു സങ്കീർണ്ണമായ സംവേദനാത്മക പ്രക്രിയയാണ് അതിനാൽ നിങ്ങൾ സംവദിക്കുമ്പോൾ അതിൽ പങ്കിട്ട അനുമാനങ്ങളും ഞങ്ങൾ അനുമാനിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള സംസാരിക്കാത്ത കരാറും ഉൾപ്പെടുന്നു നിരവധി കാര്യങ്ങൾ അനുമാനിക്കുകയും അനുമാനങ്ങളും അനുമാനങ്ങളും പരിശോധിക്കുകയും വേണം പരിശോധിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യരുത് അതിനാൽ പിശകുകളും തെറ്റിദ്ധാരണകളും ഉണ്ടാകും സാധ്യമാണ് ചിലപ്പോൾ ഇത് വളരെ ചെലവേറിയതായിരിക്കും കാരണം ഒരിക്കൽ നിങ്ങൾ അത് ഉണ്ടാക്കിയാൽ അത് വളരെ ചെലവേറിയതായിരിക്കും അത്ര എളുപ്പത്തിൽ അത് പുനഃക്രമീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ മൊത്തത്തിൽ ഫലപ്രദമായ ആശയവിനിമയം എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഫലപ്രദമായ ആശയവിനിമയം ഉണ്ടായിരിക്കേണ്ടത് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതുമായ പ്രതികരണം അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ എന്തെങ്കിലും തിരികെ ലഭിക്കാൻ ഉദ്ദേശിക്കുകയും നിങ്ങൾക്ക് മറ്റേ വ്യക്തിയിൽ നിന്ന് ആവശ്യമുള്ള പ്രതികരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു ഫലപ്രദമായ ആശയവിനിമയക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും ഫലപ്രദമായ ആശയവിനിമയം ആളുകളെ സ്വാധീനിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു അത് ആശയങ്ങൾ പങ്കിടുക മാത്രമല്ല നിങ്ങൾ ആളുകളെ അവരുടെ ആശയങ്ങളെയും ചിന്താ രീതികളെയും സ്വാധീനിക്കാൻ കഴിയും അതായത് ചിന്തയും അവരുടെ പ്രവർത്തനങ്ങളെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന പാറ്റേണുകൾ അതിനാൽ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാൻ എന്റെ ആശയവിനിമയ കഴിവുകൾ ഉപയോഗിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു നിങ്ങളുടെ പഠനം പഴയപടിയാക്കുക തുടർന്ന് നിങ്ങളുടെ ചിന്താ രീതികൾ മാറ്റാൻ പുതിയ കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ നിങ്ങളെ സഹായിക്കുക തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക പക്ഷേ ഫലപ്രാപ്തി നിങ്ങൾക്ക് എത്രയുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത് ആഗിരണം ചെയ്യുകയും നിങ്ങൾക്ക് അത് എത്രത്തോളം മാറ്റാൻ കഴിയുകയും ചെയ്യുന്നു അതിനാൽ മൊത്തത്തിൽ നിങ്ങൾ ഫലപ്രദമാണെങ്കിൽ ഫലപ്രദമായ ആശയവിനിമയം ആശയവിനിമയത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സുസ്ഥിരമായ വിജയം നൽകും നിങ്ങൾ സ്വതന്ത്രരായതിനാൽ ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾ സന്തുഷ്ടരാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ആത്യന്തികമായി വിജയം ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടുക എന്നതാണ് സമാധാനം സ്വാതന്ത്ര്യം സന്തോഷം നിങ്ങൾ എവിടെ പോയാലും അത് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ആശയവിനിമയത്തിലേക്ക് മടങ്ങുക ആശയവിനിമയത്തിന്റെ മറ്റൊരു വശം നമ്മൾ ആശയവിനിമയം നടത്തുന്നു 24X7 ലേക്ക് അതിനാൽ ആശയവിനിമയം നമ്മുടെ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനമായി മാറിയതിനാൽ നമ്മൾ നിർത്താതെ ആശയവിനിമയം നടത്തുന്നു നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങൾ നമ്മെ സംരക്ഷിക്കുന്നു മാറ്റങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നു നമ്മെ തിരിച്ചറിയുന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നു അത് നമ്മെ ദുഃഖിതരാക്കുന്നു ആശയവിനിമയത്തിൻറെ എല്ലാ മാധ്യമങ്ങളും നമ്മെ സ്വാധീനിക്കുന്നു അതിനാൽ ഇന്ന് എവിടെയും ഇല്ല ഒളിപ്പിക്കാൻ അതിനാൽ നിങ്ങൾ എവിടെയായിരുന്നാലും മാധ്യമങ്ങൾ നിങ്ങളെ പിന്തുടരുകയും ലളിതമായ നിർവചനത്തിലൂടെ ആശയവിനിമയം നടത്തുകയും ചെയ്യും രണ്ടോ അതിലധികമോ ജീവജാലങ്ങൾ തമ്മിലുള്ള ആശയങ്ങളുടെയും വികാരങ്ങളുടെയും കൈമാറ്റമാണ് ഇത് രണ്ടോ അതിലധികമോ മനുഷ്യർ ഞാൻ എന്റിറ്റികൾ എന്ന് പറഞ്ഞു കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പോലും ആശയവിനിമയം നടത്താൻ കഴിയും മൃഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങളോട് സംസാരിക്കാത്തതും പോലും ഫലപ്രദമായി എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വളർത്തുമൃഗമായ പൂച്ചയുമായി നിങ്ങളുടെ വളർത്തുമൃഗമായ നായയുമായി വാക്കാലുള്ള അല്ലാതെയുള്ള ആശയവിനിമയം നടത്താൻ കഴിയും അതിനാൽ ഡോൾഫിനുകൾ പോലും ഉദാഹരണത്തിന് മനുഷ്യരുമായി ഇടപഴകുക അതിനാൽ രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ ആളുകൾ പോലും വിശ്വസിക്കുന്നു നിങ്ങൾ സസ്യങ്ങളുമായും സസ്യങ്ങളുമായും പോലും ആശയവിനിമയം നടത്തുന്ന ചില മനുഷ്യരുണ്ടെന്ന് തോട്ടക്കാരൻ അല്ലെങ്കിൽ വീടിന്റെ ഉടമ പോകുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നുവെന്ന് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുക എന്നിട്ട് വെള്ളം ഒഴിക്കുന്നു തുടർന്ന് ആളുകൾ മരങ്ങളുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു അതിനാൽ ആശയവിനിമയം അടിസ്ഥാനപരമായി ആശയങ്ങളുടെ കൈമാറ്റമാണ് എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഗതിക്ക് ആശയവിനിമയത്തെക്കുറിച്ച് നമ്മൾ മനുഷ്യ ആശയവിനിമയത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്നു അത് ആശയവിനിമയമാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ആശയങ്ങളുടെയും ചിന്തകളുടെയും കൈമാറ്റം നാം നമ്മുടെ ചിന്തകൾ ആശയവിനിമയം നടത്തുന്നു കുടുംബസുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും അയൽക്കാരോടും പോലും എല്ലാ ദിവസവും ഓരോ മണിക്കൂറിലും വികാരങ്ങൾ എന്നാൽ ആശയവിനിമയം നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നിമിഷം പോലും ഇല്ല സമയം എന്നാൽ ചോദ്യം നമ്മൾ ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്നതാണ് വീണ്ടും ഉത്തരം ഏതാണ്ട് 60 മുതൽ 70 ശതമാനം സമയവും നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഫലപ്രദമല്ലാത്ത ആശയവിനിമയത്തിന്റെ മറ്റൊരു ഉദാഹരണം നോക്കാം അതുവഴി എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഫലപ്രദമായ ആശയവിനിമയം പ്രധാനമാണ് ഇപ്പോൾ ഇവിടെ ഒരു ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു റെസ്റ്റോറന്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഹലോ എന്ന് പറയുന്നു ദയവായി ഒരു എരിവുള്ള ചിക്കൻ ഡെലിവറി ചെയ്യുക അതിനാൽ അവൻ ആഗ്രഹിച്ചത് അവന് വിശക്കുന്നുണ്ടായിരുന്നു അവൻ ഒരു എരിവുള്ള ചിക്കൻ കഴിക്കാൻ ആഗ്രഹിച്ചു ഇപ്പോൾ അത് ഒരു വലിയ റെസ്റ്റോറന്റാണ് അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും നൽകാൻ കഴിയും തുടർന്ന് അവർ മറ്റ് നിരവധി ഇനങ്ങളുടെ ഡീലർമാരാണ് അതിനാൽ അദ്ദേഹം കുറച്ച് സമയം കാത്തിരിക്കുകയും അത് ഡെലിവറി ചെയ്തപ്പോൾ അത് വിതരണം ചെയ്യുകയും ചെയ്തു ഡെലിവറിക്ക് ശേഷം അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടു തുടർന്ന് ആളുകളെ തിരികെ വിളിച്ച് അവരോട് പറയേണ്ടി വന്നു എന്താണ് സംഭവിച്ചത് ഒരു എരിവുള്ള കോഴി നൽകുന്നതിനുപകരം അവർ ഒരു സ്പൈക്കി കോഴി നൽകി നിങ്ങൾക്കറിയാവുന്ന എരിവുള്ള രുചിക്കായി ധാരാളം മുളകും മറ്റ് പേശികളും ഇടുന്നു സ്പൈക്കിയാണ് കോഴിയുടെയോ കോഴിയിറച്ചിയുടെയോ തലയിൽ സ്പൈക്ക് പോലെയുള്ള വസ്തുവിനെ സൂചിപ്പിക്കുന്നത് അതിനാൽ ഡെലിവറിയിൽ അവർ ഉണ്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അസ്വസ്ഥനായി ജീവിച്ചിരിക്കുന്ന ഒരെണ്ണം നൽകുകയും വിശക്കുമ്പോൾ അവൻ ഒരു മസാലകൾ നിറഞ്ഞ കോഴി ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ടെലിഫോൺ ആശയവിനിമയത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്രമീകരിക്കാമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫലപ്രദമായ ശ്രോതാക്കളിൽ ഒരാൾ യഥാർത്ഥത്തിൽ സ്വീകർത്താവിനോട് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് എരിവുള്ളതോ എരിവുള്ളതോ വേണമെന്ന് യഥാർത്ഥത്തിൽ ചോദിച്ചു നിങ്ങൾക്ക് അത് വൃത്തിയാക്കാൻ കഴിയുമോ പിന്നെ ഈ അറ്റത്തുള്ള മറ്റേ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അത് ഉച്ചരിക്കാൻ പോലും കഴിയുമായിരുന്നു എസ് വൈ മസാലകൾ നിറഞ്ഞതാണെന്ന് പറഞ്ഞു എനിക്ക് അത് കഴിക്കണം എനിക്ക് അത് പാചകം ചെയ്യണം അതിനാൽ അത് ഉണ്ടാക്കുമായിരുന്നു വ്യക്തമാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത് കാരണം നമ്മൾ എല്ലായ്പ്പോഴും അനുമാനിക്കപ്പെടുന്ന അനുമാനങ്ങളുമായി പോകുന്നു നമ്മൾ ധാരാളം അനുമാനങ്ങളുമായി പോകുന്നു തുടർന്ന് ആശയവിനിമയം നിസ്സാരമായി കാണുന്നു അതിനാൽ പ്രഭാവം ഫലപ്രദമല്ലാത്ത ആശയവിനിമയ തെറ്റിദ്ധാരണയുടെ കാരണം അത് ഇവിടെ ഉദ്ദേശിച്ച സന്ദേശം നൽകിയില്ല ഇപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രശസ്ത നാടകകൃത്ത് ജോർജ്ജ് ബെർണാഡ് ഷായുടെ ഈ ഉദ്ധരണി നോക്കൂ ആശയവിനിമയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അത് സംഭവിച്ചു എന്ന മിഥ്യാധാരണയാണ് മസാലകൾ ഓർഡർ ചെയ്ത വ്യക്തിക്ക് ഞാൻ നൽകിയത് മുമ്പത്തെ ഉദാഹരണത്തിൽ സംഭവിച്ചു താൻ ഫലപ്രദമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന മിഥ്യാധാരണയിലായിരുന്നു ചിക്കൻ പിന്നെ മിക്കപ്പോഴും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന മിഥ്യാബോധത്തോടെ അവിടെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകരെപ്പോലെ വിദ്യാർത്ഥികൾ ഫീഡ്ബാക്ക് നൽകാൻ തുടങ്ങുമ്പോൾ മാത്രമേ അവർക്ക് എത്രത്തോളം നഷ്ടമായെന്ന് മനസ്സിലാകൂ ഫലപ്രദമായി സ്വീകരിച്ചു അതിനാൽ ആശയവിനിമയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആ മിഥ്യാധാരണയാണ് അത് നടന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായ ആശയവിനിമയക്കാരനാകാൻ കഴിയുമെന്ന് മനസിലാക്കുന്നതിന് മുമ്പ് ആശയവിനിമയത്തിൻറെ അടിസ്ഥാന ഘടകങ്ങൾ മനസ്സിലാക്കുക ആശയവിനിമയം ഒരു ദ്വിമുഖ പ്രക്രിയയാണ് അയയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ അല്ലെങ്കിൽ അവൾ കൈമാറുന്ന ആദ്യത്തെ പ്രധാന വ്യക്തി കുറഞ്ഞത് അത് സ്വീകരിക്കുന്ന മറ്റൊരാൾക്കുള്ള സന്ദേശം നിങ്ങൾക്ക് രണ്ട് പേരെ ആവശ്യമാണ് കമ്മ്യൂണിക്കേഷൻ ലൂപ്പ് പൂർത്തിയാക്കണം ഭാഷയുടെ ഒരു ചാനലിലൂടെയാണ് പ്രക്ഷേപണം നടത്തുന്നത് അല്ലെങ്കിൽ സന്ദേശം കൈമാറാൻ ഉപയോഗിക്കുന്ന കോഡിനെ മീഡിയം എന്ന് വിളിക്കുന്നു റിസീവർ ഒരു പ്രതികരണം അയയ്ക്കുന്നു സ്വീകർത്താവിൻ്റെ പ്രതികരണത്തിൻ്റെ നിരീക്ഷണത്തെ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീഡിയോ ഉപയോഗിക്കുന്ന പവർ പോയിന്റായിരിക്കാം ചാനൽ അതിനാൽ മോഡ് ഇൻ അത് നിങ്ങൾക്ക് കൈമാറുന്ന മാധ്യമം വാക്കാലുള്ള ഭാഷയായിരിക്കാം ചിത്രങ്ങൾ ആകാം തുടർന്ന് നിങ്ങൾ പ്രതികരിക്കുന്ന രീതി അതിനാൽ ഒന്നുകിൽ പുഞ്ചിരിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുക പരീക്ഷകളിൽ പങ്കെടുക്കുന്നു അതിനാൽ അവയെല്ലാം നിങ്ങൾ ഒരു പ്രതികരണം നൽകുന്നുവെന്ന് കാണിക്കുന്നു തുടർന്ന് സ്വീകർത്താവിൻ്റെ പ്രതികരണത്തിൻ്റെ നിരീക്ഷണത്തെ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ആശയവിനിമയ പ്രക്രിയയുടെ അടിസ്ഥാന മാതൃക നോക്കൂ അയച്ചയാൾക്ക് ആദ്യം ഉള്ള ആശയമാണിത് തുടർന്ന് അയച്ചയാൾ ആശയത്തെ സന്ദേശത്തിൽ എൻകോഡ് ചെയ്യുകയും തുടർന്ന് സന്ദേശം ചാനലിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു തുടർന്ന് റിസീവർ സന്ദേശം ഡീകോഡ് ചെയ്യുകയും ഡീകോഡ് ചെയ്ത ശേഷം റിസീവർ ഫീഡ്ബാക്ക് അയക്കുകയും ചെയ്യുന്നു അത് അയച്ചയാളുടെ അടുത്തേക്ക് പോകുന്നു ഇപ്പോൾ അയച്ചയാൾക്ക് ശരിയായി ആശയവിനിമയം ലഭിച്ചുകഴിഞ്ഞാൽ ലൂപ്പ് പൂർത്തിയായിക്കഴിഞ്ഞാൽ അയച്ചയാൾക്ക് റിസീവറിന് സാധ്യമായ അധിക ഫീഡ്ബാക്ക് അയയ്ക്കാം അതിനാൽ ഇത് ആശയവിനിമയത്തിന്റെ അടിസ്ഥാന മാതൃകയാണ് പക്ഷേ നിങ്ങൾക്ക് ആശയവിനിമയം മനസ്സിലാക്കാനും കഴിയും വിപുലീകരിച്ച മോഡലിലെ പ്രക്രിയയിൽ രണ്ട് മൂന്ന് ഇനങ്ങൾ ചേർക്കുന്നു ഒന്ന് അവിടെയുള്ള ഉത്തേജക ഭാഗമാണ് ഈ വ്യക്തിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ബാഹ്യ പ്രചോദനമോ ആന്തരിക ചിന്തയോ ആണ് എൻകോഡിംഗിലും ഡീകോഡിംഗിലും ഒരു ധാരണ ഉൾപ്പെടുന്നു തുടർന്ന് വ്യക്തി ഒരു ചാനൽ ഉപയോഗിക്കുന്നു അത് അയയ്ക്കുന്നു തുടർന്ന് വീണ്ടും ഡീകോഡിംഗ് മനസിലാക്കൽ എൻകോഡിംഗ് ഉണ്ട് പക്ഷേ അതിനിടയിൽ വിപുലീകരിച്ചതിൽ തടസ്സങ്ങളുമുണ്ട് അതിനാൽ വരുന്ന പ്രഭാഷണങ്ങളിൽ നമ്മൾ നോക്കും തടസ്സങ്ങളിൽ എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വിപുലീകരിച്ച മോഡലിൽ തടസ്സങ്ങൾ ചേർക്കുന്നു എന്നാണ് ഉത്തേജനം ചേർക്കുകയും ധാരണ ചേർക്കുകയും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഒരു ലളിതമായ അയയ്ക്കുന്ന അഞ്ച് ഡബ്ല്യുഎച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഈ ആശയവിനിമയ പ്രക്രിയ ഓർമ്മിക്കാനുള്ള മാർഗ്ഗം അവൻ അയയ്ക്കുന്ന അയച്ചയാൾ സ്വീകരിക്കുന്നയാളാണ് അവൻ അയയ്ക്കുന്ന സന്ദേശം ഏത് മാധ്യമമാണ് അത് ചാനൽ ആണ് അല്ലെങ്കിൽ അവൻ എങ്ങനെ ചാനൽ അയയ്ക്കുന്നു അത് ഏത് ഫലമാണ് അയയ്ക്കുന്നത് പ്രതികരണം അല്ലെങ്കിൽ പ്രതികരണം നിങ്ങൾ ലളിതമായ രീതിയിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഏത് ചാനലിലൂടെ ആർക്ക് എന്താണ് അയയ്ക്കുന്നത് അത് ഏത് ഫലത്തിലാണ് ആശയവിനിമയം പ്രക്രിയ എന്നാൽ ആശയവിനിമയത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫലപ്രദമായ ആശയവിനിമയക്കാരൻ ഇപ്പോൾ സന്ദേശവും അതിന്റെ ആശയവിനിമയവും വരുമ്പോൾ മാത്രമേ ഫലപ്രദമായ ആശയവിനിമയം സംഭവിക്കൂ സബ്ടെക്റ്റ് പൂർണ്ണമായും പൂർണ്ണമായും അംഗീകരിക്കപ്പെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ഫലപ്രദമായിരിക്കാൻ ആശയവിനിമയക്കാരൻ തീർച്ചയായും നിങ്ങൾ വളരെ സജീവമായ ഒരു ശ്രോതാവായിരിക്കണം നിങ്ങൾ ഒരു മുഴുവൻ ശരീരവും ആയിരിക്കണം ശ്രോതാക്കളേ നിങ്ങൾ ഉപപാഠം നിരീക്ഷിക്കണം ആന്തരിക സൂക്ഷ്മതകൾ ആശയവിനിമയത്തിന്റെ സൂക്ഷ്മതകളാണ് അത് പറയപ്പെടുകയും പറയപ്പെടാതെ അവശേഷിക്കുന്ന ആശയം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങളോട് പറഞ്ഞതും നിങ്ങളോട് പറയാത്തതും പലപ്പോഴും ഒരു സ്ത്രീ ഇല്ല എന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവൾ ആയിരിക്കാം നിങ്ങൾ ഇത് കുറച്ചുകൂടി അമർത്തിയാൽ ഞാൻ അതെ എന്ന് പറയും അതിനാൽ മറ്റേയാൾ ഉപപാഠത്തിൻറെ ഒരു ഭാഗം നിലനിർത്തുന്ന ഭാഗം മനസ്സിലാക്കുന്നു ഒരു കാര്യം പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ മറ്റെന്തെങ്കിലും സൂചിപ്പിക്കുന്നു അതിനാൽ ആ പ്രതികരണം അംഗീകരിച്ചുകൊണ്ട് അത് നിങ്ങളെ ഫലപ്രദമായ ആശയവിനിമയ ഫീഡ്ബാക്ക് ഉണ്ടാക്കും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ വാക്കാലുള്ള മറുപടി അംഗീകരിക്കുക എന്നാൽ ഈ ഭാഗം നോക്കുന്നത് നിർണ്ണായക ഘടകമാണ് ഏതെങ്കിലും ആശയവിനിമയ ഫലപ്രാപ്തിയിൽ മുഴുവൻ ശരീരത്തെയും നോക്കുന്ന ഉപവിഭാഗം നോക്കുന്നു ആശയവിനിമയത്തിലെ പങ്കാളിത്തം വാക്കാലുള്ളതാണെങ്കിലും ആശയവിനിമയത്തിന്റെ ഒരു വശവും നഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നോൺ വെർബൽ ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഘടകങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം നിങ്ങൾക്ക് ഒരു ഫലപ്രദമായ ആശയവിനിമയക്കാരനാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്രഭാഷണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഞാൻ വിവരിക്കാൻ പോകുന്ന അഞ്ച് ഘടകങ്ങളുണ്ട് അടിസ്ഥാനപരമായി ആദ്യത്തേത് സംക്ഷിപ്തതയും വ്യക്തതയുമാണ് അതായത് സംക്ഷിപ്തമായിരിക്കുക ഉപയോഗിക്കരുത് കൂടുതൽ വാക്കുകൾ പറയുകയും വ്യക്തത വരുത്തുകയും ചെയ്യുക അതായത് നിങ്ങൾ ലളിതവും വ്യക്തവുമായിരിക്കണം ഉദാഹരണത്തിന് ഹോമോ സേപിയൻ ഡൈഹൈഡ്രജൻ ഓക്സൈഡിനായി സമ്പാദിച്ചുവെന്ന് നിങ്ങൾക്ക് പറയാനാകുമ്പോൾ പറയരുത് മനുഷ്യന് വെള്ളം വേണമെന്ന് രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ ഘടകം ഫലപ്രദമായതിന്റെ രണ്ടാമത്തെ ഘടകം ഞാൻ വിശദീകരിക്കുന്നതിനുമുമ്പ് ആശയവിനിമയം ബോധ്യവും ആത്മവിശ്വാസവുമാണ് റോബർട്ടിൻറെ ഉദ്ധരണി നോക്കുക ഫ്രോസ്റ്റ് പറയുന്നു എഴുത്തുകാരനിൽ കണ്ണീരില്ല വായനക്കാരനിൽ കണ്ണീരില്ല ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഒരു എഴുത്തുകാരൻ ഒരു കവിത എഴുതുമ്പോൾ എഴുത്തുകാരന് യഥാർത്ഥത്തിൽ ചലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കവിതയുടെ അവസാനം എഴുത്തുകാരന് യഥാർത്ഥത്തിൽ കരയാൻ കഴിയുന്നില്ലെങ്കിൽ അവൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അവളുടെ കവിത വായിച്ച് കരയാൻ വായനക്കാരൻ ചില നല്ല സംവിധായകർ നല്ല അഭിനേതാക്കൾ അവർ കാണുമ്പോഴെല്ലാം അവരുടെ പ്രകടനം അവരുടെ സിനിമ കാണിക്കുന്നു അവർ കണ്ണീരിലേക്ക് നീങ്ങുന്നു തുടർന്ന് അവർ അവരുടെതാണ് ആദ്യ പ്രേക്ഷകർ അതിനാൽ നിങ്ങൾക്ക് ബോധ്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാന്ത്രികമായി അത് അറിയിക്കാൻ കഴിയും ആത്മവിശ്വാസത്തോടെ ഇത് നിങ്ങളുടെ വികാരാധീനമായ ഇടപെടലാണെന്നും നിങ്ങൾ അത് പറയുന്ന രീതി ബോധ്യപ്പെടുത്തുമെന്നും നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകരെ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഫലപ്രദമായ ആശയവിനിമയത്തിൽ നിങ്ങളുടെ പ്രേക്ഷകരെ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് അതിനാൽ നിങ്ങൾ എല്ലാവരും അത് ഫലപ്രദമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു മൂന്നാമത്തെ ഘടകം ആത്മാർത്ഥത കാണിക്കുന്നു ഉത്സാഹം കാണിക്കുന്ന താൽപ്പര്യം അതിനാൽ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ താൽപര്യം കാണിക്കുക വിഷയം നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങളുടെ സ്വീകർത്താവിൽ നിന്ന് ആവേശകരമായ പ്രതികരണത്തിന് കാരണമാകും നിങ്ങൾക്ക് ശരിക്കും രസകരമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വായനക്കാരിൽ ആവേശം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയൂ എന്നാൽ വിഷയം വേണ്ടത്ര രസകരമാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യും നിങ്ങളുടെ പ്രേക്ഷകരെ മരണം വരെ ബോറടിപ്പിക്കുക അതിനാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട അടുത്ത ഘടകം മനസ്സ് സഹാനുഭൂതിയും സമയബോധ സഹാനുഭൂതിയും ആണ് നിങ്ങൾക്ക് ഇതിനകം തന്നെ മറ്റേ വ്യക്തിയോട് തോന്നുന്നുവെന്ന് നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും അവരുടെ സമയത്തിന് സമയത്തിന്റെ പ്രയോജനം നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു ആശയവിനിമയത്തിലായിരിക്കുമ്പോഴെല്ലാം ഇമെയിലിൽ പോലും അവരുടെ സമയത്തെ ബഹുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞതായി ഓർക്കുക അതിനാൽ പ്രേക്ഷകരുടെ സമയത്തെ ബഹുമാനിക്കുന്ന ഏതൊരു ആശയവിനിമയവും ഞാൻ നിങ്ങളോട് പറയും കുറയ്ക്കാൻ ശ്രമിക്കുക അതിനാൽ പ്രേക്ഷകരോട് മര്യാദയോടും മര്യാദയോടും പെരുമാറുക അവരുടെ സമയത്തിൻറെ പ്രയോജനം നിങ്ങൾ ആയിരിക്കുമ്പോഴെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കുന്നത് ഒരു മൂല്യവത്തായ അനുഭവമാക്കി മാറ്റുന്നു ആശയവിനിമയം നടത്തുമ്പോൾ ഞാൻ ഈ വ്യക്തിയെ ശ്രദ്ധിക്കുന്നു എന്ന തോന്നൽ അവർക്ക് ലഭിക്കണം വളരെ ഫലപ്രദമായ രീതിയിൽ എന്നോട് പറഞ്ഞ അത്ഭുതകരമായ ആശയങ്ങൾ എനിക്ക് ഓർക്കാൻ കഴിയും ഈ വ്യക്തിയെ വീണ്ടും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു മൂല്യവത്തായ അനുഭവമായിരിക്കണം അവസാനമായി നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ വന്നതിന് അവർ നിങ്ങളുമായി സമ്പർക്കം പുലർത്തിയതിൽ ഖേദിക്കുന്നു എന്നാൽ ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം ഹ്രസ്വമായിരിക്കുക എന്നതല്ല അത് ഹ്രസ്വതയും ഫലപ്രാപ്തിയുമാണ് ഷേക്സ്പിയറുടെ അഭിപ്രായത്തിൽ ബുദ്ധിയുടെ ആത്മാവാണ് ഹ്രസ്വത എന്ന് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഹ്രസ്വമായിരിക്കുക എന്നത് ശരിക്കും ബുദ്ധിയുള്ളവരായിരിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ കഴിയുന്നത്ര ഹ്രസ്വമായിരിക്കണം അതായത് നിങ്ങൾ അത് ഹ്രസ്വമായി സൂക്ഷിക്കണം നിങ്ങളുടെ ആശയവിനിമയത്തിൽ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ ആശയവിനിമയം നിങ്ങൾ ഒരു നീണ്ട ഇമെയിൽ അയച്ചാൽ ആരും അത് ചെയ്യില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇമെയിലിൽ നിങ്ങൾ ഓർക്കുന്നു വായിക്കാൻ താൽപ്പര്യമുള്ള നിങ്ങൾ അത് ഹ്രസ്വവും ഫലപ്രദവുമാക്കണം അതിനാൽ ഹ്രസ്വത ഏകദേശം ഹ്രസ്വവും പിന്നീട് ഫലപ്രദവുമായതിനാൽ ആശയവിനിമയ തരങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനകം നിങ്ങളോട് പറയാൻ തുടങ്ങി അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഉണ്ടെന്ന് ഈ സമയമായപ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പരസ്യമായി വ്യക്തമാക്കാതെ രണ്ട് തരത്തിലുള്ള ആശയവിനിമയം സംസാരിക്കുന്ന വാക്ക് ഉൾപ്പെടുന്ന വാക്കാലുള്ളതും ഘടനാപരമായ ഭാഷയും രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഡയലോഗുകൾ മീറ്റിംഗുകൾ സംവാദങ്ങൾ അവതരണങ്ങൾ അവയെല്ലാം വാക്കാലുള്ള രൂപത്തിൽ ഞാൻ ഇപ്പോൾ ആശയവിനിമയത്തിന്റെ ഒരു വാക്കാലുള്ള രൂപമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാനും ഉപയോഗിക്കുന്നു വാക്കേതര രൂപം അതിനാൽ അത് ശരീരഭാഷയുടെ ആംഗ്യങ്ങളാണ് മുഖഭാവങ്ങളുടെ ചിത്രാത്മക പ്രാതിനിധ്യം ഞാൻ പിപിടി ചിത്രങ്ങളുടെ ആംഗ്യഭാഷയാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഞാൻ പോലും എന്തെങ്കിലും സൂചിപ്പിക്കാൻ എന്റെ കൈ ഉപയോഗിക്കുന്നു വാക്കാലുള്ളതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ആശയവിനിമയം വെറും വാക്കുകളേക്കാൾ കൂടുതലാണ് ഒരു സന്ദേശം പൂർണ്ണമായും മനസ്സിലാക്കാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക മാത്രമല്ല എന്നാൽ സ്വരം ഇൻടോണേഷൻ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്നും പറയുന്നു അതിനാൽ വാക്കാലുള്ള ആശയവിനിമയം കൂടുതൽ പ്രധാനമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് വാക്കേതര അല്ലെങ്കിൽ തിരിച്ചും ഫലപ്രദമായ ആശയവിനിമയം രണ്ടിന്റെയും തടസ്സമില്ലാത്ത മിശ്രിതമാണ് ആശയവിനിമയത്തിന്റെ വാക്കാലുള്ളതും അല്ലാത്തതുമായ വശങ്ങൾ ഇത് വളരെ അനുയോജ്യമായ ഒരു മിശ്രിതമാണ് അതിനാൽ ഞാൻ അവസാനിപ്പിക്കുന്നതിനുമുമ്പ് നിങ്ങൾക്ക് രണ്ടിലും പ്രാവീണ്യം നേടാൻ കഴിയണം ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് വിശദീകരിക്കും അവ ഫലപ്രദമായ ആശയവിനിമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ഇല്ലാതെ ഇതുപോലൊന്ന് എഴുതുമെന്ന് കരുതരുത് വിരാമചിഹ്നങ്ങൾ ഈ ഫലപ്രദമായ ആശയവിനിമയമാണ് പുരുഷനില്ലാത്ത സ്ത്രീ ഒന്നുമല്ല തീർച്ചയായും ഇല്ല കാരണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ ആശ്രയിച്ച് ഇത് വളരെ അവ്യക്തമായിത്തീരുന്നു നിങ്ങൾ സ്ത്രീക്ക് ശേഷം കോമാ ഇടുകയാണെങ്കിൽ ഇത് നോക്കൂ അർത്ഥം യഥാർത്ഥത്തിൽ മാറാൻ കഴിയും പുരുഷനില്ലാതെ സ്ത്രീ ഒന്നുമല്ല അതിനാൽ പുരുഷനില്ലാത്ത ഏതൊരു സ്ത്രീയും ഒന്നുമല്ല എന്നാണ് ഇതിനർത്ഥം മനുഷ്യൻ പിതാവ് സഹോദരൻ ഭർത്താവ് മകൻ അയൽക്കാരൻ സഹപ്രവർത്തകൻ ബോസ് അതിനാൽ അവളുടെ ഭർത്താവില്ലാതെ അത് പറയുന്നു ഇത് പൂർണ്ണമായും ഒരു പുരുഷ കേന്ദ്രീകൃത കാഴ്ച നൽകുന്നില്ല എന്നാൽ നിങ്ങൾ കോമാ മാറ്റുകയാണെങ്കിൽ അത് ഇടുക അവളില്ലാതെ അർത്ഥം പൂർണ്ണമായും മാറുന്ന മറ്റൊരു സ്ഥലം എതിർവശത്തുള്ള സ്ത്രീയായി മാറുന്നത് അവളുടെ പുരുഷനില്ലാതെ ഒന്നുമല്ല അതിനാൽ ഇതിനർത്ഥം അമ്മയോ സഹോദരിയോ ഭാര്യയോ സുഹൃത്തോ ആകട്ടെ ഏതൊരു സ്ത്രീയും ഇപ്പോൾ വീണ്ടും ബോസ് ആകുന്നു എന്നാണ് അവളുടെ ഭർത്താവില്ലാതെ അതിന്റെ ഉപയോഗത്തെ ആശ്രയിച്ച് അർത്ഥം എങ്ങനെ മാറുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ല വിരാമചിഹ്നങ്ങൾ തുടർന്ന് എന്തിനെ ആശ്രയിച്ച് നിങ്ങൾ ആശയവിനിമയത്തിൽ ഫലപ്രദമായിരിക്കണം നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമാണോ മറ്റൊന്നിനെ നോക്കൂ നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഫലം എന്താണ് നിങ്ങൾ വീണ്ടും ഇതുപോലെ എഴുതുകയാണെങ്കിൽ അവനെ കൊല്ലുക അവനെ ഉപേക്ഷിക്കരുത് എന്നത് ഫലപ്രദമായ ആശയവിനിമയമാണ് ഇല്ല കാരണം അത് വീണ്ടും രണ്ട് കാര്യങ്ങൾ അർത്ഥമാക്കുന്നു അത് ഒരു മന്ത്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചു വളരെ നല്ലതായിരുന്നു തുടർന്ന് സഹമന്ത്രിമാർക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നി തുടർന്ന് മനസ്സിനെ വിഷലിപ്തമാക്കി രാജാവിൻറെയും അവർ ഈ വ്യക്തിയെക്കുറിച്ചും യഥാർത്ഥത്തിൽ രാജാവിനെക്കുറിച്ചും നെഗറ്റീവ് മതിപ്പ് നൽകി ഈ മന്ത്രിമാർ കാരണം ഒടുവിൽ ഈ വ്യക്തിയെ കൊല്ലുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല തന്റെ കൺമുന്നിൽ അത് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച അവൻ അവനെ അടുത്തുള്ള രാജാവിന്റെ അടുത്തേക്ക് അയച്ചു തുടർന്ന് അവൻ ഒരു സന്ദേശം അയച്ചു ഒരു പട്ടാളക്കാരൻ വഴിയുള്ള സന്ദേശം തുടർന്ന് രാജാവ് സന്ദേശം നോക്കി തുടർന്ന് അദ്ദേഹം വായിച്ചു ഇതുപോലുള്ള സന്ദേശം എന്നാൽ യഥാർത്ഥത്തിൽ രാജാവ് സന്ദേശം അയയ്ക്കുമ്പോഴേക്കും അദ്ദേഹം മറ്റൊരു സന്ദേശം അയച്ചു വീണ്ടും അദ്ദേഹം വിരാമചിഹ്നങ്ങളൊന്നും ഉപയോഗിച്ചില്ല പക്ഷേ അദ്ദേഹം എന്തോ അർത്ഥമാക്കി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മന്ത്രി സത്യവാനും പിന്നീട് വിശ്വസ്തനുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അവനെ വെറുതെ വിടണം എന്നാൽ രാജാവ് ഇത് വായിച്ചു അതിനർത്ഥം അവനെ കൊല്ലണമെന്ന് അദ്ദേഹം കരുതി അവനെ ഉപേക്ഷിക്കരുത് അതിനാൽ അവൻ തന്നെ വാൾ എടുത്ത് ഈ വ്യക്തിയുടെ തല മുറിച്ചുമാറ്റി പക്ഷേ രാജാവ് എന്താണ് ചെയ്തത് പിൽക്കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് മറ്റേ രാജാവ് കൊല്ലരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് അവനെ സ്വതന്ത്രനാക്കുക അവനെ കൊല്ലുക അവനെ ഉപേക്ഷിക്കരുത് എന്നതായിരുന്നു അഭ്യർത്ഥന പക്ഷേ അത് മനസ്സിലാക്കപ്പെട്ടു മറുവശത്ത് പോലെ അതിനാൽ ആശയവിനിമയം എത്രത്തോളം ഫലപ്രദമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പരാതി ഒരു വ്യക്തിയുടെ വിലയേറിയ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം കലഹവും തുടർന്ന് ഫലപ്രദമല്ലാത്ത ആശയവിനിമയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അനാവശ്യമായ ഭാരവും പരാജയം അതിനാൽ ഇത് ഒഴിവാക്കുക തുടർന്ന് ഘടകങ്ങൾ ഉപയോഗിക്കുക ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്ത കൂടുതൽ വശങ്ങൾ നമ്മൾ പരിശോധിക്കും വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിലെ ആശയവിനിമയം എന്നാൽ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ടോണി റോബിൻസിൻ്റെ ഈ ഉദ്ധരണി നോക്കൂ മറ്റുള്ളവരുമായി നമ്മൾ ആശയവിനിമയം നടത്തുന്ന രീതിയും നമ്മളുമായി നമ്മൾ ആശയവിനിമയം നടത്തുന്ന രീതിയും പറയുന്നു മറ്റുള്ളവ വ്യക്തിപരമായ ആശയവിനിമയവും നമ്മോടുതന്നെ വ്യക്തിപരമായ ആശയവിനിമയവുമാണ് നമ്മുടെ ഉള്ളിൽ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നു അതിനാൽ നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന ഫലപ്രാപ്തിയാണ് നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക അതിനാൽ നിങ്ങളുടെ ആശയവിനിമയത്തിൽ ഈ ഫലപ്രദമായ നിലവാരം വർദ്ധിപ്പിക്കാനും പരിശ്രമിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതനിലവാരം ഉയർത്താനും അതിനാൽ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു അപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുവെന്നതിൽ സന്തോഷമുണ്ട് വളരെ നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു